നമസ്കാരം അവസാന ക്ലാസ്സിൽ നെറ്റ്വർക്ക് സ്ഥിരത എന്ന വിഷയത്തിൽ നമ്മൾ ചർച്ച ആരംഭിച്ചു നെറ്റ്വർക്ക് സ്ഥിരതയെക്കുറിച്ചും നെറ്റ്വർക്ക് സിന്തസിസിനെക്കുറിച്ചും നമ്മൾ ഇന്ന് ചർച്ച തുടരും നെറ്റ്വർക്ക് സ്ഥിരതയെക്കുറിച്ച് നമ്മൾ അവസാന ക്ലാസിൽ ചർച്ച ചെയ്തു അതിനാൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ചചെയ്തത് സമയംആകുമ്പോൾ സർക്യൂട്ട് അതിന്റെ ഇംപൾസ് പ്രതികരണം പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരതയുള്ളതാണ് സമയം ആയിരിക്കുമ്പോൾ ഇംപൾസ് പ്രതികരണം ഒരു പരിമിത മൂല്യത്തിലേക്ക് കേന്ദ്രീകരിക്കും എന്നാണ് ഇതിനർത്ഥം ആകുമ്പോൾ പരിമിതി ഇല്ലാതെ വളരുകയാണെങ്കിൽ അത് അസ്ഥിരമായിരിക്കും ഗണിതശാസ്ത്രപരമായി നമുക്ക് ഇത് finite പരിമിതമായ5 എന്ന് എഴുതാമെന്നും നമ്മൾ ചർച്ച ചെയ്തു ഇപ്പോൾ യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോർമാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോർം ഡൊമെയ്നിൽ ഇങ്ങനെ പ്രതിനിധീകരിക്കാമെന്ന് നമ്മൾ ചർച്ച ചെയ്തു സർക്യൂട്ട് സ്ഥിരത കൈവരിക്കുന്നതിന് ഇംപൾസ് പ്രതികരണം ഇംപൾസ് പ്രതികരണത്തിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഇനിപ്പറയുന്ന ആവശ്യകതകൾ പാലിക്കണം ആ ആവശ്യകതകൾ എന്തൊക്കെ ആയിരുന്നു ഒരു ആവശ്യകത നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്റെ ഡിഗ്രി ന്റെ ഡിഗ്രിയേക്കാൾ കുറവായിരിക്കണം അതായത് ന്യൂമറേറ്റർ എക്സ്പ്രഷന്റെ ഡിഗ്രി ഡിനോമിനേറ്ററിലെ എക്സ്പ്രഷന്റെ ഡിഗ്രിയേക്കാൾ കുറവായിരിക്കണം അടുത്ത നിബന്ധന ന്റെ എല്ലാ ധ്രുവങ്ങൾക്കും നെഗറ്റീവ് വാസ്തവികസംഖ്യാ ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം എല്ലാ ധ്രുവങ്ങളും എന്ന് അർത്ഥമാക്കുന്നത് ഡിനോമിനേറ്റർ എക്സ്പ്രഷന്റെ എല്ലാ മൂല്യങ്ങൾക്കും നെഗറ്റീവ് വാസ്തവികസംഖ്യാ ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം നിഷ്ക്രിയ മൂലകങ്ങളായ ആർ എൽ സി മൂലകങ്ങളും സ്വതന്ത്ര സ്രോതസ്സുകളും ചേർന്ന സർക്യൂട്ടുകൾ അസ്ഥിരമാകില്ലെന്നും ഇപ്പോൾ നമ്മൾ ചർച്ചചെയ്തു കാരണം ഇവ അസ്ഥിരമാകാമെന്ന് നമ്മൾ പറഞ്ഞാൽ അതിനർത്ഥം പൂജ്യമായി സജ്ജമാക്കിയിരിക്കുന്ന സ്രോതസ്സുകൾ ഉപയോഗിച്ച് അനിശ്ചിതമായി വളരുന്ന ചില ബ്രാഞ്ച് കറൻറുകളോ വോൾട്ടേജുകളോ ഉണ്ടാകും എന്നാണ് R L C സർക്യൂട്ടുകൾ വിശകലനം ചെയ്യുമ്പോൾ ഇത് സാധാരണയായി സംഭവിക്കുന്നില്ല അതിനാൽ നിഷ്ക്രിയ ഘടകങ്ങളും സ്വതന്ത്ര സ്രോതസ്സുകളും ഘടകങ്ങളുടെ ശൃംഖലയും അസ്ഥിരമാകില്ലെന്ന നമ്മളുടെ വാക്ക് പരിശോധിക്കാം R L C സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് അത് പറയാൻ കഴിയും മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ഉദാഹരണം നോക്കാം

എന്ന ഡിനോമിനേറ്റർ എക്സ്പ്രഷനായ ഡിനോമിനേറ്റർ ഘടകം RLC സർക്യൂട്ടിനെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ നമ്മൾ ഇതിനകം ചർച്ചചെയ്തിട്ടുണ്ട് അതിനാൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത സ്വഭാവ സമവാക്യമാണിത് ഡിനോമിനേറ്റർ എക്സ്പ്രഷന്റെ ധ്രുവങ്ങൾക്ക് ഡിനോമിനേറ്റർ എക്സ്പ്രഷന്റെ മൂല്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും എന്നിവയും സ്ഥാപിച്ചു R L C 0 നേക്കാൾ വലുതാണെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ അവസ്ഥയാണെങ്കിൽ 2 ധ്രുവങ്ങൾ എല്ലായ്പ്പോഴും തലത്തിന്റെ ഇടത് ഭാഗത്ത് എഴുതുന്നു അതിനാൽ ആർ എൽ സി R LC ഘടകങ്ങൾ അടങ്ങിയ നെറ്റ്വർക്കിൽ അസ്ഥിരമാകില്ല കാരണം തന്നിരിക്കുന്ന സർക്യൂട്ടിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ധ്രുവത്തിന് എല്ലായ്പ്പോഴും നെഗറ്റീവ് വാസ്തവികസംഖ്യാ ഭാഗം ഉണ്ടാകും R 0 ന് തുല്യമാകുമ്പോൾ ഡാമ്പിംഗ് കോഫിഫിഷ്യന്റ് 0 ആയിരിക്കും എന്നതാണ് നമ്മൾ ചർച്ച ചെയ്ത നിർണായക അവസ്ഥ അങ്ങനെയാണെങ്കിൽ സർക്യൂട്ട് ഓസിലേറ്ററി ആകും ഇപ്പോൾ സജീവ സർക്യൂട്ട് നിഷ്ക്രിയ സർക്യൂട്ട് പോലുള്ള ചില സർക്യൂട്ടുകൾ ഉണ്ട് അതിൽ നിയന്ത്രിത സ്രോതസ്സുകൾ അടങ്ങിയിരിക്കുന്നു അവയ്ക്ക് ഊർജ്ജം നൽകാൻ കഴിയും അതിനാലാണ് അവ അസ്ഥിരമാകുന്നത് അത്തരം സർക്യൂട്ടിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഓസിലേറ്റർ ഇത് അസ്ഥിരമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കാരണം t →∞ സമയം വരുമ്പോൾ അത് സ്ഥിരമായ മൂല്യത്തിലേക്ക് ആകില്ല അതിനാൽ നിങ്ങൾ ഓസിലേറ്റർ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഓസിലേറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇങ്ങനെ എഴുതാം

ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനുകളുടെ ധ്രുവങ്ങൾ സാങ്കൽപ്പിക അക്ഷത്തിൽ കിടക്കുന്നത് നിങ്ങൾ കാണും ധ്രുവങ്ങൾ എന്നിവയാണ് അതിനാൽ നിങ്ങൾക്ക് ധ്രുവങ്ങൾ സാങ്കൽപ്പിക അക്ഷത്തിൽ കിടക്കുമ്പോൾ സർക്യൂട്ട് ഓസിലേറ്ററി എന്നാണ് അർത്ഥമാക്കുന്നത് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് സിനുസോയ്ഡൽ ആണ് അതിനാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ സർക്യൂട്ട് ഓസിലേറ്ററി ആണെന്ന് നിങ്ങൾ പറയും ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം അങ്ങനെ നമുക്ക് ആശയം മനസ്സിലാക്കാൻ കഴിയും ചിത്രത്തിൽ നൽകിയിരിക്കുന്ന സർക്യൂട്ട് സ്ഥിരതയുള്ളത് ആകാനുളള kയുടെ മൂല്യം നമ്മൾ നിർണ്ണയിക്കേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഊർജ്ജ സംഭരണ ഘടകം ഉണ്ട് അത് കപ്പാസിറ്ററാണ് 1sC എന്നത് എസ് ഡൊമെയ്നിലെ കപ്പാസിറ്റൻസിന്റെ മൂലൃമാണ് നമുക്ക് 2 റെസിസ്റ്റൻസുകളുണ്ട് ഒരു ആശ്രിത വോൾട്ടേജ് സ്രോതസ്സുണ്ട് അത് ലൂപ്പിൽ ഉള്ള കറൻറ് പ്രവാഹത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇത് സ്ഥിരതയുള്ള സർക്യൂട്ട് ആകുന്ന kയുടെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് നമ്മൾ ആദ്യം മെഷ് വിശകലനം ഉപയോഗിച്ച് ഈ 2 ലൂപ്പുകൾക്കായി സമവാക്യം എഴുതാം

ഇപ്പോൾ നിങ്ങൾക്ക് ഈ 2 സമവാക്യങ്ങൾ ഉണ്ട് നിങ്ങൾ അവയെ മാട്രിക്സ് രൂപത്തിൽ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം അതിനാൽ നിങ്ങൾ മാട്രിക്സ് സമാഹരിക്കുമ്പോൾ ഈ സർക്യൂട്ടിന്റെ സ്വഭാവ സമവാക്യം നിയന്ത്രിക്കുന്ന സ്വഭാവ സമവാക്യം കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തുചെയ്യണം ഇപ്പോൾ സമാഹരിച്ച മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നിങ്ങൾ കണ്ടെത്തണം ഡിറ്റർമിനന്റിന്റെ മൂല്യം ഇതാണ് അത് സ്വഭാവ സമവാക്യമല്ലാതെ മറ്റൊന്നുമായിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും നിങ്ങൾക്ക് ഒരു ധ്രുവത്തിന്റെ മൂല്യം ലഭിക്കും കാരണം ഇവിടെയാണ് ന്യൂമറേറ്റർ ഘടകം s ന്റെ ഡിഗ്രി 1 മാത്രമായി അടങ്ങിയിരിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് ഒരു ധ്രുവം മാത്രമേ ഉണ്ടാകൂ അതിനാൽ ധ്രുവത്തിന്റെ മൂല്യം ഇപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ധ്രുവം p യുടെ ഈ മൂല്യം k 2R ആകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കുമെന്ന് നിങ്ങൾ പറയും ആകുമ്പോൾ സർക്യൂട്ട് സ്ഥിരത കൈവരിക്കുമെന്നോ അല്ലെങ്കിൽ k 2R ആകുമ്പോൾ സർക്യൂട്ട് അസ്ഥിരമാകുമെന്നോ നമുക്ക് പറയാൻ കഴിയും ഇത് നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ കഴിയും നിങ്ങളുടെ സർക്യൂട്ട് സ്ഥിരതയുള്ളത് ആകുന്ന kയുടെ മൂല്യം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഇനി നമുക്ക് നെറ്റ്വർക്ക് സിന്തസിസ് എന്ന മറ്റൊരു ആശയത്തെക്കുറിച്ച് സംസാരിക്കാം എന്താണ് നെറ്റ്വർക്ക് സിന്തസിസ് തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷന് ഉചിതമായ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് നെറ്റ്വർക്ക് സിന്തസിസ് ഇപ്പോൾ ഈ നെറ്റ്വർക്ക് സിന്തസിസ് നമ്മളുടെ നെറ്റ്വർക്ക് വിശകലനത്തിന് വിപരീതമാണ് അവിടെ നമുക്ക് സർക്യൂട്ട് ലഭിക്കുന്നു തന്നിരിക്കുന്ന സർക്യൂട്ടിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു നെറ്റ്വർക്ക് സിന്തസിസ് ടൈം ഡൊമെയ്നിനേക്കാൾ s ഡൊമെയ്നിൽ നടപ്പിലാക്കാൻ എളുപ്പമാണ് നെറ്റ്വർക്ക് സിന്തസിസും നെറ്റ്വർക്ക് അനാലിസിസും തമ്മിൽ വേർതിരിക്കുമ്പോൾ നെറ്റ്വർക്ക് അനാലിസിസിൽ നൽകിയ നെറ്റ്വർക്കിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്തുമെന്ന് നമുക്ക് പറയാൻ കഴിയും നെറ്റ്വർക്ക് സിന്തസിസ് ആ സമീപനത്തിന്റെ വിപരീതമാണ് തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷന് അനുയോജ്യമായ ഒരു നെറ്റ്വർക്ക് കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് ഇതിനർത്ഥം അതിനാൽ നെറ്റ്വർക്ക് സിന്തസിസിന്റെ കാര്യത്തിൽ നമ്മൾ എന്തു ചെയ്യും നമുക്ക് ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ലഭിക്കും അതിൽ നിന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷനെ തൃപ്തിപ്പെടുത്തുന്ന അനുയോജ്യമായ നെറ്റ്വർക്ക് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു ഇപ്പോൾ നെറ്റ്വർക്ക് സിന്തസിസിൽ വ്യത്യസ്ത ഉത്തരങ്ങളുണ്ടാകാം അല്ലെങ്കിൽ ഉത്തരങ്ങളില്ലായിരിക്കാം കാരണം ഒരേ ട്രാൻസ്ഫർ ഫംഗ്ഷനെ പ്രതിനിധീകരിക്കുന്നതിന് നിരവധി സർക്യൂട്ടുകൾ ഉപയോഗിച്ചേക്കാം തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷന് ഏറ്റവും അനുയോജ്യമായ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് നെറ്റ്വർക്ക് വിശകലനത്തിൽ കാര്യങ്ങൾ വിപരീതമാണെങ്കിലും ഒരു ഉത്തരം മാത്രമേ ഉണ്ടാകൂ നെറ്റ്വർക്ക് വിശകലനത്തിൽ നമുക്ക് എല്ലായ്പ്പോഴും ഒരൊറ്റ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ലഭിക്കും പക്ഷേ നെറ്റ്വർക്ക് സിന്തസിസിന്റെ കാര്യത്തിൽ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷന് ഒന്നിലധികം സർക്യൂട്ടുകളെ പ്രതിനിധീകരിക്കാൻ കഴിയും സർക്യൂട്ടിലെ സിന്തസിസ് വശം ഉദാഹരണങ്ങളുടെ സഹായത്തോടെ മനസിലാക്കാൻ എളുപ്പമുള്ളതിനാൽ നമുക്ക് ഈ ആശയങ്ങൾ മനസ്സിലാക്കാം ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഇനി നമുക്ക് പറയാം ഇത് എൽ സി LC എന്നിവ അവതരിപ്പിക്കുന്ന സർക്യൂട്ടാണെന്നും C R ന് സമാന്തരമാണെന്നും അനുപാതം റെസിസ്റ്റൻസ് Rന് കുറുകെ ഉള്ള വോൾട്ടേജിനെ ഇൻപുട്ട് വോൾട്ടേജിനാൽ ഹരിക്കപ്പെടുന്നതാണ് ഇപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ലഭിച്ചു ഇത് ആയിരിക്കും സർക്യൂട്ട് എന്ന് നമുക്ക് ധാരണയുണ്ട് നമ്മൾ എന്തുചെയ്യണം R L C എന്നിവ ഇവിടെ നമുക്ക് 3ഉം അറിയാത്തതിനാൽ നമ്മൾ ഒരു മൂല്യം ഉറപ്പിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ആ മൂല്യം ശരിയാക്കുന്നത് ഉത്തരത്തിലേക്ക് പുരോഗമിക്കുമ്പോൾ R ന്റെ മൂല്യം നമ്മൾ നിർണ്ണയിക്കുന്നതും Cയുടെ മൂല്യം കണ്ടെത്തുന്നതും എന്തുകൊണ്ടാണെന്ന് നമ്മൾ കാണും R 5 ഓം R 1 ഓം എന്നിങ്ങനെ 2 കേസുകൾ എടുത്ത് LC എൽ സി എന്നിവയുടെ മൂല്യം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും ഇപ്പോൾ ആദ്യം നമ്മൾ എന്തുചെയ്യണം ഇതിന് തുല്യമായ s ഡൊമെയ്നിലുളള സർക്യൂട്ട് നമ്മൾ കണ്ടെത്തണം സർക്യൂട്ടിന് തുല്യമായ s ഡൊമെയ്ൻ നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ആയിരിക്കും ഇത് ഇൻപുട്ട് വോൾട്ടേജായ Vi ആണ് Vi റെസിസ്റ്റൻസ് Rന് കുറുകെ ആണ് തുടർന്ന് ഇൻഡക്റ്റർ sL ആകുകയും കപ്പാസിറ്റൻസ് ആകുകയും ചെയ്യും ഇപ്പോൾ കപ്പാസിറ്റൻസും റെസിസ്റ്റൻസും സമാന്തരമാണ് ഈ വോൾട്ടേജ് രണ്ട് ഘടകങ്ങളിലും പ്രയോഗിക്കും കാരണം രണ്ടും സമാന്തരമാണ് അതിനാൽ R||1sC യുടെ ഈ സമാന്തര സംയോജനത്തിന്റെ തുല്യമായ ഇംപഡൻസ് നമുക്ക് കണ്ടെത്താൻ കഴിയും നമ്മൾ പരിഹരിക്കുമ്പോൾ എസ് ഡൊമെയിനിൽ തുല്യമായ ഇംപിഡൻസ് ആയി ലഭിക്കും ഇപ്പോൾ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ തത്ത്വം ഉപയോഗിക്കാൻ കഴിയും ഈ കപ്പാസിറ്റൻസിന് കുറുകെ ഉണ്ട് അതിനാൽ അടിസ്ഥാനപരമായി കപ്പാസിറ്റൻസിന്റെയും റെസിസ്റ്റൻസിന്റെയും സമാന്തര സംയോജനത്തിന് കുറുകെ വോൾട്ടേജ് ഉണ്ടാകും അതിനാൽ നിങ്ങൾക്ക് വോൾട്ടേജ് ഡിവിഷൻ തത്ത്വം ഉപയോഗപ്പെടുത്താനും യുടെ മൂല്യം കണ്ടെത്താനും കഴിയും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ അതിനാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന രണ്ട് മൂല്യങ്ങളാണിവ ഇപ്പോൾ നമുക്ക് 2 സമവാക്യങ്ങളും 3 അജ്ഞാതങ്ങളും മാത്രമേ ഉള്ളൂ എന്നതിനാൽ ഒരു അളവ് ഉറപ്പിക്കാതെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല അവസാന സ്ലൈഡിൽ നമ്മൾ ചർച്ചചെയ്തത് അതാണ് കുറഞ്ഞത് ഒരെണ്ണം ഉറപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ നമുക്ക് എഴുതാൻ കഴിയും നമുക്ക് ഉത്തരം ലഭിക്കും നമ്മളുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് അതിന്റെ മൂല്യം R 5 ഓം എന്ന് ഉറപ്പിക്കുക എന്നാണ് അതിനാൽ നിങ്ങൾ R 5ഓമിന് തുല്യമാക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന C യുടെ മൂല്യം 66 67 മില്ലിഫാരഡും L 1 5 ഹെൻറിയുമാണ് ഇപ്പോൾ നിങ്ങൾക്ക് R 1 ഓമിന് തുല്യമാണെങ്കിൽ C 0 333 ഫറാഡും എൽ L 0 3 ഹെൻറിയും ആയിരിക്കും ഇപ്പോൾ R 1 ഓമിന് തുല്യമാക്കുന്നത് സാധാരണയായി രൂപരേഖ ക്രമാനുസരണമാക്കുക എന്ന് പറയപ്പെടുന്നു കാരണം നിങ്ങൾ R 1 ഓം ആയി നിശ്ചയിക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾ സർക്യൂട്ടിന്റെ രൂപകൽപ്പന ക്രമാനുസരണമാക്കുന്നു എന്നാണ് അതിനാൽ ഇതുപയോഗിച്ച് നിങ്ങൾക്ക് അറിയാത്ത മൂല്യം എൽ സി LC എന്നിവ കണ്ടെത്താൻ കഴിയും എന്നാൽ നിങ്ങൾ ഒരു ഘടകമെങ്കിലും ഉറപ്പിക്കണം അതിനാൽ ഈ കേസിൽ നമ്മൾ റെസിസ്റ്റൻസ് ആർന്റെ മൂല്യം നിശ്ചയിച്ചു ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ഈ സാഹചര്യത്തിൽ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നൽകുകയും R ന്റെ മൂല്യം 2 ഓം നൽകുമ്പോൾ L C എന്നിവയുടെ മൂല്യം വീണ്ടും കണ്ടെത്തുകയും വേണം അതിനാൽ ആദ്യം നൽകിയ സർക്യൂട്ടിനെ എസ് ഡൊമെയ്നായി പരിവർത്തനം ചെയ്യുക എന്നതാണ് ഇവിടെ R L C 3ഉം ശ്രേണിയിലാണെന്ന് നിങ്ങൾ കാണുന്നു അത് തന്നിരിക്കുന്ന സർക്യൂട്ടിന്റെ തുല്യമായ എസ് ഡൊമെയ്ൻ സർക്യൂട്ട് ആയിരിക്കും C ഉപയോഗിച്ച് മാറ്റും L ന് പകരം sL എഴുതാം എസ് ഡൊമെയ്നിൽ ആയി മാറും R സമാനമായി തുടരും ആയി മാറും അതിനാൽ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ലൂപ്പ് സമവാക്യം എഴുതുകയും Vi യുടെ ഭാഗമായി Rന് കുറുകെ ഉളള വോൾട്ടേജിനെ പ്രതിനിധീകരിക്കുകയും വേണം അങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ലഭിക്കും നമ്മൾ ലൂപ്പ് സമവാക്യം എഴുതുകയും Rനു കുറുകെ ഉളള യുടെ രീതിയിൽ പുനക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ എന്നത് R അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് എഴുതാം കാരണം R ന് കുറുകെ വോൾട്ടേജ് 3 സീരീസ് ഘടകങ്ങളാൽ വിഭജിക്കപ്പെടുന്നു അതിനാൽ നമ്മൾ5ക്ക് എഴുതാം നമ്മൾ പുനക്രമീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ലളിതമായി എഴുതാം സർക്യൂട്ടിൽ നിങ്ങൾക്ക് അറിയാത്തവയെ അടിസ്ഥാനമാക്കി ഇപ്പോൾ നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ലഭിക്കും നമുക്ക് നൽകിയിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് അതിനാൽ ഇവ രണ്ടും താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് ലളിതമായി പറയാൻ കഴിയും 4നും 20നും തുല്യമാണ് അതിനാൽ ഇവിടെ വീണ്ടും നിങ്ങൾക്ക് 2 സമവാക്യങ്ങളുണ്ട് പക്ഷേ നിങ്ങൾക്ക് 3 അജ്ഞാതങ്ങളുണ്ട് Rന്റെ മൂല്യം നമ്മൾ 2 ഓം ആയി നിശ്ചയിക്കുന്നു അതിനാൽ Rന്റെ മൂല്യം 2 ഓം ആയി നിശ്ചയിക്കുമ്പോൾ നിങ്ങൾക്ക് Lന്റെ മൂല്യം 0 5 ഹെൻറിയായും കപ്പാസിറ്റൻസ് C യുടെ മൂല്യം 0 1 ഫറാഡായും ലഭിക്കും ഈ പ്രത്യേക പ്രക്രിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് അറിയാത്തവയുടെ മൂല്യങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അതിനാൽ ഈ സാഹചര്യത്തിൽ CL എന്നിവ അറിയാത്തവയായിരുന്നു നമ്മൾ R ന്റെ മൂല്യം നിശ്ചയിക്കുന്നു അതിനാൽ നെറ്റ്വർക്ക് സിന്തസിസ് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ പുരോഗമിക്കുന്നത് ഇങ്ങനെയാണ് ഇതുവെച്ച് നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു ഈ സെഷനിൽ നമ്മൾ നെറ്റ്വർക്ക് സിന്തസിസിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും നെറ്റ്വർക്ക് സ്ഥിരതയെക്കുറിച്ചുള്ള ചർച്ച നടത്തുകയും ചെയ്തു പ്രത്യേകിച്ചും ഈ ആഴ്ചയിൽ വിവിധ സർക്യൂട്ട് വിശകലനത്തിൽ ലാപ്ലേസ് പരിവർത്തനത്തിന്റെ പ്രയോഗത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അടുത്ത ആഴ്ചയിൽ രണ്ട് പോർട്ട് നെറ്റ്വർക്കിനെക്കുറിച്ച് ചർച്ചചെയ്യുമെന്ന കുറിപ്പിനൊപ്പം ഈ ആഴ്ചയിലെ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുന്നു